അതിനാൽ ഫ്ലോർ പ്ലാനിംഗ് എന്ന അടുത്ത ഉപപ്രശ്നം നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്നു അതിനാൽ ഫ്ലോർ പ്ലാനിംഗ് നമുക്ക് ആദ്യം ഈ പ്രശ്നം എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് സാധാരണ VLSI ഫിസിക്കൽ ഡിസൈനിൽ നോക്കുക നമുക്ക് നമ്മുടെ പ്ലൈഗ്രൌണ്ട ഉണ്ട് അത് സിലിക്കൺ ഫ്ലോർ ആണ് അവിടെയാണ് നമ്മുടെ സർക്യൂട്ട് കോംപോണേന്റ്സ് ഫ്ലോർ പ്ലാനിംഗ് എന്നാൽ ഞാൻ മുമ്പ് നൽകിയ അനലോഗി ഓർക്കുക ഒരു വീടിന്റെ പ്ലാൻ നിർമ്മിക്കുന്നത് പോലെയാണ് അതിനാൽ എനിക്ക് എന്റെ സർക്യൂട്ട് ബ്ലോക്കുകൾ ഉണ്ട് എന്റെ സിലിക്കൺ ഫ്ലോറിൽ ഏത് സർക്യൂട്ട് ബ്ലോക്കുകൾ എവിടെ സ്ഥാപിക്കണം എന്ന് ഞാൻ ആസൂത്രണം ചെയ്യണം അതിനാൽ ഈ ആസൂത്രണം ഞാൻ ഒരു നല്ല രീതിയിൽ ചെയ്തുകഴിഞ്ഞാൽ തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഫിസിക്കൽ ഡിസൈൻ പ്രോസസ്സ് തയ്യാറാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ജോലി വളരെ എളുപ്പമാകും കാരണം നമ്മൾ ഒരു കാര്യം ഫിസിക്കൽ ഡിസൈനിൽ ഓർക്കുക നമ്മൾ ദശലക്ഷക്കണക്കിന് ഘടകങ്ങൾ അടങ്ങിയ സർക്യൂട്ട് അല്ലെങ്കിൽ നെറ്റ്ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നു അതിനാൽ നമ്മൾ ഇത്തരത്തിലുള്ള വിഭജനം ഫ്ലോർ പ്ലാനിംഗ് എന്നിവ ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺക്യുർ അപ്പ്രോച്ചിലേക്ക് പോകുന്നു പ്രശ്നത്തെ ലളിതമായ ഉപപ്രശ്നങ്ങളായി വിഭജിക്കുകയോ മാറ്റുകയോ ചെയ്തുകൊണ്ട് നമ്മൾ പ്രശ്നത്തിന്റെ സങ്കീർണ്ണത വലിയ തോതിൽ കുറയ്ക്കുന്നു തുടർന്ന് അവ ഓരോന്നായി സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് പറയാം ഫ്ലോർ പ്ലാനിംഗ് ലേ ഔട്ട് സർഫേസിൽ മൊഡ്യൂളുകളുടെ ഏകദേശ സ്ഥാനങ്ങൾ കണ്ടെത്തുന്നതിൽ ആശങ്കയുണ്ടാക്കുന്നു ഇപ്പോൾ ചില അനുമാനങ്ങൾ സാധാരണയായി നിർമ്മിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ലഭ്യമായ പ്രദേശം സിലിക്കൺ ഫ്ലോർ ദീർഘചതുരാകൃതിയിലുള്ള രൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മൊഡ്യൂളുകൾ അവ സാധാരണയായി ഒരു ചതുരാകൃതിയിലുള്ളവയാണ് പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് L പോലുള്ള മറ്റ് മൊഡ്യൂൾ ആകൃതികൾ ഉണ്ടാകാം നമുക്ക് ഇത് പിന്നീട് കാണാം അതിനാൽ നമ്മൾ സംസാരിക്കുന്ന പ്രശ്നത്തിന്റെ മൊത്തത്തിലുള്ള വ്യാപ്തിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്ന ഒരു ഡയഗ്രം നോക്കാം ഇടതുവശത്ത് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില മൊഡ്യൂളുകൾ കാണിക്കുന്നു വലതുവശത്തുള്ള ഈ ചതുരാകൃതിയിലുള്ള പ്രദേശം നമ്മുടെ സിലിക്കൺ ഫ്ളോറാണ് അതിനാൽ ഈ 5 ബ്ലോക്കുകൾ നമ്മൾ ഇതുപോലെ സ്ഥാപിക്കുന്നു a b c d e ബ്ലോക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ താൽക്കാലിക ഫ്ലോർ പ്ലാൻ ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്ന മറ്റൊരു കാര്യം അത് ഫ്ലോർ പ്ലാനിംഗ് ഘട്ടത്തിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാനിടയില്ല ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പ്രഭാഷണ ശ്രേണിയിൽ ഉപപ്രശ്നം നമ്മൾ പരിഗണിക്കും ഫ്ലോർ പ്ലാൻ സൃഷ്ടിക്കുന്നതിനു പുറമേ നമ്മൾ താൽക്കാലികമായി ഏക്സ്റ്റേർണൽ പിന്നുകൾ അല്ലെങ്കിൽ IO പാഡുകൾ അതിന്റെ സ്ഥാനം ശരിയാക്കുകയും ചെയ്യുന്നു നമ്മുടെ ഏക്സ്റ്റേർണൽ കണക്ഷനുകൾ പുറത്തുപോകുന്ന സ്ഥാനങ്ങൾ ഇവയാണ് കൂടാതെ വൈദ്യുതി വിതരണ ലൈനുകൾ സോളിഡ് എഡ്ജ് ഗ്രൌണ്ട് ലൈനിനെ സൂചിപ്പിക്കുന്നു ഇത് ഡോട്ടഡ് എഡ്ജ് പവർ സപ്ലൈ ലൈൻ VDD സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് നോൺ യഥാർത്ഥത്തിൽ ഗ്രൌണ്ട് വിഡിഡി ലൈനുകൾ സാധാരണയായി ഒരേ ലയേറിൽ മെറ്റൽ ലയേറിൽ സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ ഈ ഗ്രൌണ്ടും വിഡിഡിയും ഈ 2 നെറ്റ്സും പരസ്പരം വിഭജിക്കുന്നില്ല നിങ്ങൾക്ക് കാണാം അതിനാൽ പവർ ഗ്രൌണ്ട് പ്ലാനിംഗ് എന്നിവയുൾപ്പെടെയുള്ള ഫ്ലോർ പ്ലാനിംഗ് പ്രശ്നത്തിനുള്ള ഒരു സാധാരണ പരിഹാരമാണിത് ഇതാണ് മൊത്തത്തിലുള്ള ചിപ്പ് പ്ലാനിംഗ് ഞാൻ കാണിക്കുന്നു എന്നാൽ നമ്മൾ ഇവിടെ വിഡിഡിയും ഗ്രൌണ്ട് പ്ലാനിംഗും പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ പ്ലാനിൽ ബ്ലോക്കുകളും ഫ്ലോറിലെ അവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളും മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ ചില ഉദാഹരണങ്ങൾ പിന്നീട് നമുക്ക് കാണാം അതിനാൽ പ്രോബ്ലം ഡെഫിനിഷൻ ഇങ്ങനെ പോകുന്നു നമുക്ക് n ബ്ലോക്കുകൾ ഉണ്ടെന്ന് കരുതുക അവയുടെ ഏരിയകൾ നൽകിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഉണ്ട് ഈ ബ്ലോക്കുകളിൽ ചിലത് ശരിയാക്കാൻ കഴിയും ഈ ബ്ലോക്കുകളിൽ ചിലത് ഫ്ലെക്സിബിൾ ആകാം ഫിക്സ്ഡ് എന്നാൽ ബ്ലോക്കുകളുടെ വീതിയും ഉയരവും എനിക്കറിയാം എന്നാൽ മറ്റ് ചില ബ്ലോക്കുകൾ ഉണ്ട് എത്ര ഗേറ്റുകളോ ട്രാൻസിസ്റ്ററുകളോ ഉണ്ടെന്ന് എനിക്കറിയാം അതായത് എനിക്ക് ഈ പ്രദേശം അറിയാം എന്നാൽ എന്റെ ഉയരവും വീതിയും ഇപ്പോഴും ഫ്ലെക്സിബിളാണ് അതിനാൽ എനിക്ക് അത് ക്രമീകരിക്കാൻ കഴിയും അതിനാൽ എന്റെ പ്രദേശം നൽകിയിരിക്കുന്നത് ഫ്ലെക്സിബിൾ ബ്ലോക്കുകൾ എന്നാണ് അതിനാൽ ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ചില പരിമിതികൾ ഉണ്ടാകാം ആസ്പെക്ട് റേഷ്യോ എന്നാൽ ഉയരം വീതി കൊണ്ട് ഹരിക്കുക എന്നാണ് അതിനാൽ ഒരു ബ്ലോക്ക് ചതുരാകൃതിയിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് നേർത്തതോ വെർട്ടിക്കലായി വിന്യസിച്ചതോ ഹൊറിസോണ്ടലായി വിന്യസിച്ചതോ ആകാം എന്നാൽ ആ അനുപാതം എത്ര നേർത്തതാണെന്ന് നിങ്ങൾക്ക് ഒരു കോൺസ്ട്രയിന്റ് ആയി വ്യക്തമാക്കാം ഇത് ഇതിലും കനംകുറഞ്ഞതായിരിക്കില്ല ഉയരം മുതൽ വീതി വരെയുള്ള അനുപാതം ഇതിലും കൂടുതലോ കുറവോ ആയിരിക്കരുത് അതിനാൽ ഔട്ട്പുട്ട് ഓരോ ബ്ലോക്കിന്റെയും കൃത്യമായ വീതിയും ഉയരവും ആയിരിക്കും നിശ്ചിത ബ്ലോക്കുകൾക്കായി വീതിയും ഉയരവും ഇതിനകം അറിയപ്പെടുന്നു ഫ്ലെക്സിബിൾ ബ്ലോക്കിന് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് അവരുടെ ഉൽപ്പന്നം അവയുടെ വിസ്തീർണ്ണത്തിന് തുല്യമായിരിക്കും തീർച്ചയായും അവ പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ആസ്പെക്ട് റേഷ്യോ ആയ ri si എന്നിവയുടെ പരിധിയിൽ കിടക്കും ലക്ഷ്യം തീർച്ചയായും മൊത്തം ലേ ഔട്ട് ഏരിയ കുറയ്ക്കുക കൂടാതെ ക്രിട്ടിക്കൽ വയറുകൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നെറ്റ്സ് എന്നിവയുടെ വയർ ലെങ്ത് കുറയ്ക്കുക എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഓർക്കുക നമ്മൾ വയർ ലെങ്ത് കുറയ്ക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് ബ്ലോക്കുകളുടെ ഒരു താൽക്കാലിക പ്ലേസ്മെന്റ് ആണ് അതിനാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വയറുകളുടെ കൃത്യമായ വയറിംഗ് ഈ ഘട്ടത്തിൽ നമുക്ക് വളരെ ഏകദേശ കണക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ അതിനാൽ ആ ഏകദേശ കണക്ക് ഉപയോഗിച്ച് പോലും എന്റെ ക്രിട്ടിക്കൽ നെറ്റ് വളരെ നീണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്ക് ഈ 2 ബ്ലോക്കുകൾ ഒരുമിച്ച് കൊണ്ടുവരാം അത്തരത്തിലുള്ള എന്തെങ്കിലും അടുത്ത് വയ്ക്കുക ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പിന്നീട് പ്ലേസ്മെന്റ് പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കും ഫ്ലോർ പ്ലാനിംഗും പ്ലെയ്സ്മെന്റും തികച്ചും സമാനമാണ് പക്ഷേ കൃത്യമായ വ്യത്യാസങ്ങളും ഉണ്ട് വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫ്ലോർ പ്ലാനിംഗിൽ ചില ബ്ലോക്കുകൾ പ്രകൃതിയിൽ ഫ്ലെക്സിബിൾ ആകാം അവയുടെ വിസ്തീർണ്ണം അറിയപ്പെടുന്നു എന്ന അർത്ഥത്തിൽ എന്നാൽ ഉയരവും വീതിയും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കൂടാതെ ഓരോ ബ്ലോക്കിലും പിന്നുകൾ ഉണ്ട് ഉദാഹരണത്തിന് എനിക്ക് ഇതുപോലുള്ള ഒരു നിശ്ചിത ബ്ലോക്ക് ഉണ്ടെന്ന് കരുതുക ഇത് NAND ഗേറ്റിനോട് യോജിക്കുന്നുവെന്ന് പറയട്ടെ അതിനാൽ എന്റെ 2 ഇൻപുട്ടുകൾ ഇവിടെയും ഇവിടെയും എന്റെ ഔട്ട്പുട്ട് ഇവിടെയും ആകാം ഇവ നിശ്ചിത പിൻ ലൊക്കേഷനുകളാണ് എന്നാൽ എനിക്ക് 6 പിൻസ് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാവുന്ന ഒരു ഫ്ലെക്സിബിൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പക്ഷേ അവയുടെ കൃത്യമായ ലൊക്കേഷനുകൾ ഉറപ്പിച്ചിട്ടില്ല അവയ്ക്ക് ചുറ്റിക്കറങ്ങാം പിൻ ലൊക്കേഷനുകളും ഇവിടെ ഫ്ലെക്സിബിൾ ആണ് അതിനാൽ ഫ്ലോർ പ്ലാനിങ്ങിൽ പിന്നുകളുടെ കൃത്യമായ സ്ഥാനം അവ പരിഹരിക്കപ്പെടണമെന്നില്ല നിങ്ങൾ പിന്നുകളുടെ സ്ഥാനവും പരിഹരിക്കേണ്ടതുണ്ട് എന്നാൽ പ്ലെയ്സ്മെന്റ് പ്രശ്നത്തിൽ എല്ലാ ബ്ലോക്കുകളിലും നന്നായി നിർവചിച്ചിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പ്സും അവയുടെ പിൻ ലൊക്കേഷനുകളും ഉറപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഫ്ലോർ പ്ലാനിംഗിൽ നമ്മൾ പരസ്പരബന്ധത്തിന് ഇടം നൽകുന്നില്ല പക്ഷേ പ്ലെയ്സ്മെന്റിൽ നമ്മൾ ഒരു ഉദാഹരണം പോലെ പരസ്പരബന്ധങ്ങൾക്കായി സ്പേസ് വ്യക്തമായി സൂക്ഷിക്കുന്നു ഇപ്പോൾ ഫ്ലോർ പ്ലാനിംഗിൽ എനിക്ക് പറയാൻ കഴിയും എനിക്ക് 3 ബ്ലോക്കുകൾ ഉണ്ട് എ ബി സി ഇത് ഇങ്ങനെ സ്ഥാപിക്കണം B യുടെയും C യുടെയും ഇടതുവശത്ത് B യുടെയും C യുടെയും മുകളിൽ B എന്നാൽ ഇവിടെ പ്ലെയ്സ്മെന്റിൽ ഞാൻ ഇത് വ്യക്തമാക്കും ഇത് എന്റെ ബ്ലോക്ക് A ഇത് എന്റെ ബ്ലോക്ക് B ഇതാണ് എന്റെ ബ്ലോക്ക് C അതിനിടയിൽ കുറച്ച് ഇടമുണ്ട് ഞാൻ പരസ്പരബന്ധങ്ങൾക്കായി സൂക്ഷിച്ചു ഇത് ശരിയായ പ്ലേസ്മെന്റ് പ്രശ്നത്തിന്റെ ഔട്ട്പുട്ട്ആണ് അതിനാൽ ഫ്ലോർ പ്ലാനിംഗും പ്ലേസ്മെന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ബ്ലോക്കുകൾ എന്ന ആശയം ഉള്ളതിനാൽ ഫ്ലോർ പ്ലാനിംഗ് പ്രശ്നം കൈകാര്യം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഒരു ബ്ലോക്കിനായി നിങ്ങൾക്ക് പ്രദേശം നൽകിയിരിക്കുന്നു അതിനാൽ ബ്ലോക്കിന്റെ വ്യത്യസ്ത ആകൃതികൾ ഉണ്ടാകാം മെച്ചപ്പെട്ട ലേ ഔട്ടിൽ ഏത് പ്രത്യേക രൂപത്തിന് കൂടുതൽ കോംപാക്റ്റ് നൽകാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് എളുപ്പമുള്ള പ്രശ്നമല്ല പക്ഷേ പ്ലെയ്സ്മെന്റിൽ എല്ലാ ബ്ലോക്കുകളുടെയും ആകൃതികളും വലുപ്പങ്ങളും ഉറപ്പിച്ചിരിക്കുന്നതിനാൽ പ്രശ്നം വളരെ എളുപ്പമാണ് എന്നാൽ ഫ്ലോർ പ്ലാനിംഗിൽ അവ സ്ഥാപിക്കുന്നതിനൊപ്പം ബ്ലോക്കുകളുടെ വീക്ഷണ അനുപാതം ഫ്ലോക്സിബിൾ ആയ ബ്ലോക്കുകളുടെ കൃത്യമായ ആകൃതികൾ എന്നിവയും നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ചില ഡിസൈൻ ശൈലികളിൽ ഞങ്ങൾ കാണും രണ്ട് പ്രശ്നങ്ങൾ അല്ല വ്യത്യസ്തമാണ് അവ ഒന്നുതന്നെയാണ് അതിനാൽ ഫ്ലോർ പ്ലാനിംഗ് പ്രശ്നത്തിന്റെ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം അതിനാൽ 5 മൊഡ്യൂളുകൾ ഉണ്ടെന്ന് നമ്മൾ പരിഗണിക്കുന്നു വീതിയും ഉയരവും നൽകിയിരിക്കുന്നു അതിനാൽ ഇവയെല്ലാം നിശ്ചിത മൊഡ്യൂളാണ് അവയൊന്നും ഫ്ലെക്സിബിൾ അല്ല അതിനാൽ A എന്നത് ഒരു ചതുരാകൃതിയിലുള്ള മൊഡ്യൂളാണ് 1 by 1 B എന്നാൽ 1 by 3 C എന്നത് 1 by 1 D എന്നത് 1 by 2 E എന്നത് 2 by 1 എന്നിങ്ങനെയാണ് ഇവ 3 സാധ്യമായ ഫ്ലോർ പ്ലാനുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാര്യം B 1 by 3 ആണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്ക് വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ ആ ഫ്ലെക്സിബിലിറ്റി നൽകാൻ കഴിയും അതുപോലെ തന്നെ ഡി ബ്ലോക്കിന്റെ ആകൃതി എനിക്കറിയാവുന്നതിനാൽ എനിക്ക് ഇത് ഹൊറിസോണ്ടലായോ വെർട്ടിക്കലായോ സ്ഥാപിക്കാൻ കഴിയും പക്ഷേ ഞാൻ അത് 90 ഡിഗ്രി തിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അതിനാൽ ഒരു ഹൊറിസോണ്ടൽ ബ്ലോക്ക് എനിക്ക് ലംബമായി തിരിക്കുന്നതിലൂടെ വെർട്ടിക്കലായി ഉണ്ടാക്കുന്നു അതിനാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ 5 ബ്ലോക്കുകൾ പല തരത്തിൽ സ്ഥാപിക്കാനാകും അതിനാൽ നിങ്ങൾക്ക് നിരവധി ഇതര ഫ്ലോർ പ്ലാനുകൾ ഉണ്ടാകും അതിനാൽ ഇവിടെ ഉയർന്നുവരുന്ന കാര്യം ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് നിരവധി ഫ്ലോർ പ്ലാനുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ഇവയിൽ ഏതാണ് മികച്ചതെന്ന് നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് ഒരു സംവിധാനം ഉണ്ടായിരിക്കണം എല്ലാ ബദലുകളിലും നമ്മൾ മികച്ച ഫ്ലോർ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഇപ്പോൾ ഡിസൈൻ സ്റ്റൈൽ സ്പെസിഫിക് പ്രശ്നങ്ങളിലേക്ക് വരുന്നു നമുക്ക് ഇത് പെട്ടെന്ന് നോക്കാം പൂർണ്ണമായ കസ്റ്റം ഡിസൈൻ ശൈലിക്ക് മുഴുവൻ കസ്റ്റം ഡിസൈൻ ശൈലിയിലും ബ്ലോക്കുകൾക്ക് ഏതെങ്കിലും ഏകപക്ഷീയമായ ആകൃതികളും വലിപ്പവും ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക അവ ചെറുതാകാം വലുതായിരിക്കാം സ്ക്വയർ ആയിരിക്കാം ചതുരാകൃതിയിലാകാം അതിനാൽ ഫ്ലോർ പ്ലാനിംഗും പ്ലേസ്മെന്റ് പ്രശ്നങ്ങളും പൂർണ്ണ കസ്റ്റം ഡിസൈനുകളുടെ ശൈലിയിൽ ചിത്രത്തിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘട്ടങ്ങളും ആവശ്യമാണ് എന്നാൽ സ്റ്റാൻഡേർഡ് സെല്ലിന് എന്നാൽ ഈ എല്ലാ സെല്ലുകളുടെയും അളവ് നിശ്ചിതമാണ് കാരണം സെല്ലുകൾ ഒരു ലൈബ്രറിയിൽ നിന്നാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അല്ലാത്തപക്ഷം സെല്ലുകളുടെ ഉയരം നിശ്ചിതമാണ് എന്നാൽ വീതി വ്യത്യസ്തമായിരിക്കും എന്നാൽ ഞാൻ ഒരു സെൽ തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ ആകൃതിയും വലുപ്പവും നിശ്ചയിക്കുകയും അത് ഈ രീതിയിൽ മാത്രമേ സ്ഥാപിക്കാവൂ ഈ സെല്ലുകൾ ഒരു സാധാരണ സെൽ ലേഔട്ടിൽ തിരിക്കാനും നിങ്ങളെ അനുവദിക്കില്ല അതിനാൽ സാധാരണ സെല്ലിന് ഫ്ലോർ പ്ലാനിംഗും പ്ലേസ്മെന്റ് പ്രശ്നങ്ങളും ഒന്നുതന്നെയാണ് അവ വ്യത്യസ്ത ഉപപ്രശ്നങ്ങളല്ല അതിനാൽ നിങ്ങൾക്ക് ഒരു വലിയ നെറ്റ്ലിസ്റ്റ് ഉള്ളപ്പോൾ നിങ്ങൾ 2 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു ആദ്യം നിങ്ങൾ ഒരു ഗ്ലോബൽ പാർട്ടീഷനിങ് നടത്തുക നിങ്ങൾ മുഴുവൻ നെറ്റ്ലിസ്റ്റിനെയും ചെറിയ കഷണങ്ങളായി വിഭജിക്കുകയും ഓരോ ഭാഗവും ഇൻഡിയുജീവൽ റീജിയൻസ് ആയി മാപ്പ് ചെയ്യുകയും ചെയ്യും സ്റ്റാൻഡേർഡ് സെല്ലിന്റെ ഒരു വരി ആയിരിക്കാം നിങ്ങൾ അവയെ സ്റ്റാൻഡേർഡ് സെല്ലിന്റെ ഒരു വരിയിൽ വയ്ക്കുകയും പ്ലെയ്സ്മെന്റ് നടത്തുകയും ചെയ്യുന്നു അതുപോലെ ഗേറ്റ് അറേകൾക്കായി നിങ്ങൾക്ക് ലേഔട്ട് ഫ്ലോറിൽ ധാരാളം ഗേറ്റുകൾ ഉണ്ട് ധാരാളം ഗേറ്റുകൾ ഉണ്ട് അതിനാൽ ഫ്ലോർ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഗേറ്റുകൾ എവിടെ സ്ഥാപിക്കണമെന്ന് നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു നിങ്ങൾ പ്ലെയ്സ്മെന്റുകളെക്കുറിച്ച് പറയുമ്പോൾ ഗേറ്റുകൾ എങ്ങനെ സ്ഥാപിക്കണം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതിനാൽ ഫ്ലോർ പ്ലാനിംഗും പ്ലേറ്റ്മെന്റും ഒരു ഗേറ്റ് അറേയ്ക്ക് പോലും സമാനമാണ് അവ വ്യത്യസ്തമല്ല അതിനാൽ ഈ 2 പ്രശ്നങ്ങൾ ഒന്നുതന്നെയാണ് താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് നിരവധി ഇതര ഫ്ലോർ പ്ലാനുകൾ ഉള്ളപ്പോൾ ചില കോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവ വിലയിരുത്താൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ചെലവ് എങ്ങനെ വിലയിരുത്താം എന്ന് നമുക്ക് നോക്കാം അതിനാൽ ഒരു ഫ്ലോർ പ്ലാനിംഗ് പ്രശ്നത്തിന്റെ സാധ്യമായ പരിഹാരങ്ങളുടെ എണ്ണം വളരെ വലുതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇത് ആവശ്യമാണ് മികച്ച പരിഹാരം നിർണ്ണയിക്കുന്നത് ഇത് കംപ്യുറ്റേഷനലി കോംപ്ലക്സ് NP ഹാർഡ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾ ഒന്നിലധികം ഫ്ലോർ പ്ലാനുകൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ താരതമ്യം ചെയ്യാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് മൊത്തം വിസ്തീർണ്ണം നോക്കാം മൊത്തം വയർ ലെങ്ത് നോക്കാം ബ്ലോക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും പരസ്പര ബന്ധത്തിന്റെ സങ്കീർണ്ണത എങ്ങനെ വ്യെത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഫ്ലോർ പ്ലാനിൽ നിങ്ങൾക്ക് കുറച്ച് അകലെയുള്ള രണ്ട് ബ്ലോക്കുകൾ സ്ഥാപിക്കാം പക്ഷേ അവയ്ക്കിടയിൽ കണക്ഷനുകളുടെ എണ്ണം വളരെ വലുതാണ് അതിനാൽ നിങ്ങളുടെ ഇന്റർകണക്ഷൻ കോംപ്ലക്സിറ്റി അവിടെ വലുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാം നിർണായക ഭാഗങ്ങളുടെ കാലതാമസം കുറയ്ക്കുക അതിനാൽ അവ എത്ര ദൂരത്തിലാണെന്നും ഇവയുടെ ഏതെങ്കിലും കോമ്പിനേഷനായി നിങ്ങൾ കണക്റ്റുചെയ്യാൻ ആഗ്രഹിക്കുന്ന പോയിന്റുകൾ നിങ്ങൾ കാണുന്നു ഏരിയ നിർണ്ണയിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം നിങ്ങളുടെ മൊത്തം സിലിക്കൺ ഫ്ലോർ ചതുരാകൃതിയിലുള്ളതാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു മികച്ച ഫ്ലോർ പ്ലാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ദീർഘചതുരത്തിന്റെ വലുപ്പം കുറയും അതിനാൽ ഉയരം വീതി കൊണ്ട് ഗുണിച്ചാൽ നിങ്ങളുടെ ഏരിയ ആയിരിക്കും അതിനാൽ മൊത്തം ഫ്ലോർ പ്ലാനിന്റെ വീതിയും ഉയരവും നോക്കി ഉൽപ്പന്നം എടുക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രദേശത്തിന്റെ വലുപ്പം വളരെ എളുപ്പത്തിൽ അളക്കാൻ കഴിയും അതിനാൽ ഏരിയ എളുപ്പത്തിൽ കണക്കാക്കാം ഓരോ കാൻഡിഡേറ്റ് ഫ്ലോർ പ്ലാനിനും നിങ്ങൾക്ക് ഏരിയ വളരെ എളുപ്പത്തിൽ അളക്കാൻ കഴിയും എന്നാൽ വയർ ലെങ്ത് അതിനാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെ ഏകദേശ കണക്ക് മാത്രമേ അനുവദിക്കൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഈ ഘട്ടത്തിൽ നിങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേക ഇടങ്ങൾ പോലും സൂക്ഷിച്ചിട്ടില്ല വയറുകൾ എങ്ങനെ സ്ഥാപിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ഒരു ഏകദേശരൂപം ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ അതിനാൽ ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ രീതി ഈ ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ വിശദീകരിക്കുകയാണ് ഈ 3 ദീർഘചതുരങ്ങളാൽ കാണിച്ചിരിക്കുന്ന 3 ബ്ലോക്കുകൾ എനിക്ക് ഉണ്ടെന്ന് കരുതുക അതിനാൽ ഞാൻ ഇവിടെ ഉഹിക്കുന്നത് ഈ ബ്ലോക്കുകളിൽ ഓരോന്നിലും നിരവധി പിന്നുകൾ ഉണ്ടാകാം അവ മറ്റ് 2 ബ്ലോക്കുകളിലെ മറ്റ് നിരവധി പിന്നുകളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ പിന്നുകളും ലയിപ്പിച്ച് ബ്ലോക്കുകളുടെ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നുവെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഇവ ബ്ലോക്ക് സെന്ററുകളാണെന്ന് കരുതുക പിൻസ് ബ്ലോക്കുകളുടെ കേന്ദ്രങ്ങളിലാണ് ഉണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു ഈ ബ്ലോക്കിനും cij എന്ന ഈ ബ്ലോക്കിനും ഇടയിൽ ബ്ലോക്ക് i നും ബ്ലോക്ക് j നും ഇടയിൽ എത്ര ഇന്റർകണക്ഷൻ ലൈനുകൾ ഉണ്ടെന്ന് ഞാൻ കണക്കുകൂട്ടുന്നു Dij ആണ് ദൂരം ദൂരം ഞാൻ മാൻഹട്ടൻ ദൂരമായി കണക്കാക്കുന്നു അപ്പോൾ മാൻഹട്ടൻ ഡിസ്റ്റൻസ് എന്താണ് ഒരു പോയിന്റ് ഇതുമായി ബന്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക മാൻഹട്ടൻ ഡിസ്റ്റൻസ് എന്നാൽ നിങ്ങൾ വെർട്ടിക്കലായി പോകുന്നു തുടർന്ന് നിങ്ങൾ ഹൊറിസോണ്ടലായി പോകുന്നു അതിനാൽ ഈ y പ്ലസ് x മാൻഹട്ടൻ ഡിസ്റ്റൻസ് ഇതാണ് x പ്ലസ് y അതിനാൽ ഈ പോയിന്റുകളുടെ കോർഡിനേറ്റുകൾ നിങ്ങൾക്കറിയാവുന്ന ഇന്റർകണക്ഷൻ വയറുകളുടെ എണ്ണം എന്നിവ നൽകിയാൽ നിങ്ങൾക്ക് മാൻഹട്ടൻ ഡിസ്റ്റൻസ് എളുപ്പത്തിൽ കണക്കാക്കാം 2 ബ്ലോക്കുകളുടെ ഇടയിലുള്ള മാൻഹട്ടൻ ദൂരത്താൽ എത്ര കണക്ഷനുകൾ ഉണ്ടെന്ന് ഓരോ ജോഡി ബ്ലോക്കുകളിലുടനീളം നിങ്ങൾ കാണുന്നു ഇത് വയറിംഗ് ദൈർഘ്യം മൊത്തം വയറിംഗ് ദൈർഘ്യം എന്നിവയുടെ ഏകദേശ കണക്ക് ആയിരിക്കും നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്ന മൊത്തം ചെലവ് ഏരിയ യുടെയും ലെങ്ങ്തിന്റെയും വെയ്ഗ്റ്റഡ് സം ആയിരിക്കുംഇപ്പോൾ ഇത് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഏരിയ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതായിരിക്കും നിങ്ങൾ w1 ന് ഉയർന്ന വെയിറ്റേജ് നൽകാം പക്ഷേ നിങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നത് കൂടുതൽ പ്രധാനമാണ് നിങ്ങൾക്ക് w2 ന് ഉയർന്ന ദൈർഘ്യം നൽകാം അപ്പോൾ വെയ്ഗ്റ്റും കൂടുന്നു അതിനാൽ ഈ w1 w2 ഉപയോക്താവിന് വ്യക്തമാക്കാൻ കഴിയും ഇപ്പോൾ ഒരു ഫ്ലോർ പ്ലാനിന്റെ ഗുഡ്നെസ്സ് കണക്കാക്കാൻ മറ്റൊരു വഴിയുണ്ട് ഇത് ഡെഡ് സ്പേസ് അളക്കുന്നതിലൂടെയാണ് ഡെഡ് സ്പേസ് എന്നാൽ ഒരു ഫ്ലോർ പ്ലാനിനുള്ളിലെ സ്ഥലം പാഴാകുന്നതാണ് ഈ ഫ്ലോർ പ്ലാനിന്റെ മൊത്തം വിസ്തീർണ്ണം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉയരം വീതിയും കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് കണക്കാക്കാം അവിടെ ഇൻഡിവിജുൽ ബ്ലോക്കുകളും ഉണ്ട് അതിനാൽ നിങ്ങൾ ബ്ലോക്കുകളുടെ ഏരിയകളുടെ ആകെത്തുക എടുക്കുക അതിനാൽ ബ്ലോക്കുകളുടെ ഏരിയകൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എയിൽ നിന്ന് അത് കുറച്ചാൽ നിങ്ങൾക്ക് അൺഒക്ക്യൂപിഡ് സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ചിലപ്പോൾ ഡെഡ് സ്പേസ് എന്ന് വിളിക്കുന്നു അതിനാൽ അത് എ കൊണ്ട് ഹരിക്കുക നിങ്ങൾ ശതമാനം കണക്കുകൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനെ ഡെഡ് സ്പേസ് പെർസെന്റജ് എന്ന് വിളിക്കുന്നു ചിലപ്പോൾ ഏരിയക്ക് പകരം ഡെഡ് സ്പേസ് പെർസെന്റജ് കുറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം ഡെഡ് സ്പേസ് പെർസെന്റജ് കുറയ്ക്കുക എന്നാൽ നിങ്ങൾ വിസ്തീർണ്ണം കുറയ്ക്കുന്നു എന്നാണ് അതിനർത്ഥം സമാനമാണ് അതിനാൽ പ്രശ്നങ്ങൾ സമാനമാണ് ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് നോക്കാം സ്ലൈസിങ് സ്ട്രക്ച്ചർ അതിനുള്ള വളരെ സാധാരണമായ ഒരു മാർഗമാണ് അത് എന്താണെന്ന് കാണാൻ നമുക്ക് ശ്രമിക്കാം സ്ലൈസിംഗ് സ്ട്രക്ച്ചർ അർത്ഥമാക്കുന്നത് ഇത് ഒരു ചതുരാകൃതിയിലുള്ള വിഭജനം പോലെയാണ് എനിക്ക് ഒരു ഫ്ലോർ പ്ലാൻ ഉണ്ടെന്ന് കരുതുക നിരവധി ബ്ലോക്കുകൾ ഉണ്ടെന്ന് കരുതുക ഡിസക്ഷൻ എന്നാൽ എനിക്ക് ഫ്ലോർ പ്ലാൻ ഒരു വെർട്ടിക്കൽ ലൈനോ ഇതുപോലുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈനോ ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും എനിക്ക് അതിനെ 2 ഭാഗങ്ങളായി മുറിക്കാൻ കഴിയും ഇവയെ ഡിസക്ഷൻസ് എന്ന് വിളിക്കുന്നു അങ്ങനെ ഞാൻ ഒരു ഡിസക്ഷൻ ചെയ്തുകഴിഞ്ഞാൽ ഞാൻ ഫ്ലോർ പ്ലാൻ 2 ചെറിയ ഫ്ലോർ പ്ലാനുകളായി വിഭജിക്കുന്നു അതിനാൽ അടിസ്ഥാന ബ്ലോക്കുകൾ ലഭിക്കുന്നതുവരെ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെ ആവർത്തിച്ച് സ്ലൈസ് ചെയ്യാമെന്ന് സ്ലൈസിംഗ് സ്ട്രക്ച്ചർ യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയുന്നു അതിനാൽ സ്ലൈസിംഗ് ട്രീ എന്നത് ആ സ്ലൈസിംഗ് സ്ട്രക്ച്ചർ വ്യക്തമാക്കുന്ന ഒന്നാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കും സ്ലൈസിംഗ് ട്രീ ഒരു ബൈനറി ട്രീ അല്ലാതെ മറ്റൊന്നുമല്ല ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഒരു സ്ലൈസ് ഹൊറിസോണ്ടൽ സ്ലൈസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ലൈസ് ചെയ്യുന്നു ഈ ബൈനറി ട്രീയിൽ വെർട്ടെക്സ് അല്ലെങ്കിൽ നോഡ് ഒന്നുകിൽ ഒരു വെർട്ടിക്കൽ കട്ട് V അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ കട്ട് H പ്രതിനിധീകരിക്കുന്നു മുറിക്കാൻ കഴിയാത്ത ചില ഫ്ലോർ പ്ലാനുകൾക്കായി ഇത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം ട്രീയുടെ ലീഫ് ഒരു അടിസ്ഥാന ബ്ലോക്കിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഫ്ലോർ പ്ലാനിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ബ്ലോക്കുകൾ ഇപ്പോൾ ഇടതുവശത്തുള്ള ഈ ട്രീ സാധ്യമായ ഒരു സ്ലൈസിങ് ട്രീയെ പ്രതിനിധീകരിക്കുന്നു ഇത് എങ്ങനെ ചെയ്തുവെന്ന് നമുക്ക് നോക്കാം ലീഫ് സൈഡിൽ നിന്ന് ആരംഭിക്കാം ef എന്നത് ഒരു വേർട്സ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് e f എന്നിവ ഒരു വെർട്ടിക്കൽ ലൈൻ കൊണ്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ മുഴുവൻ കാര്യവും ഈ മുഴുവൻ ദീർഘചതുരത്തെയും സൂചിപ്പിക്കുന്നു e f d ഈ മുഴുവൻ ദീർഘചതുരവും d എന്ന ഹൊറിസോണ്ടൽ രേഖയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഈ മുഴുവൻ ദീർഘചതുരവും ഒരു ഹൊറിസോണ്ടൽ രേഖയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ മുഴുവൻ കാര്യവും c യും മറ്റൊരു ഹൊറിസോണ്ടൽ രേഖയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ മുഴുവൻ കാര്യവും c യും മറ്റൊരു ഹൊറിസോണ്ടൽ രേഖയും മറ്റേ വശം ab ഒരു ഹൊറിസോണ്ടൽ രേഖയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ab ഒരു ഹൊറിസോണ്ടൽ രേഖയിലൂടെയും ഈ മുഴുവൻ കാര്യവും ഈ മുഴുവൻ കാര്യവും ഒരു വെർട്ടിക്കൽ രേഖയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ വെർട്ടിക്കൽ രേഖയിലൂടെ അതിനാൽ ഈ ഫ്ലോർ പ്ലാനിനെ ഇതുപോലുള്ള ഒരു സ്ലൈസിംഗ് ട്രീ കൊണ്ട് പ്രതിനിധീകരിക്കാം നിങ്ങൾക്ക് പരിശോധിക്കാം ഇത് ഒരേ ഫ്ലോർ പ്ലാനെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ലൈസിംഗ് ട്രീ ആണ് അതിനാൽ ഈ c യും d യും യഥാർത്ഥത്തിൽ പരസ്പരം മാറ്റിയിരിക്കുന്നു കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയും 2 ഹൊറിസോണ്ടൽ സ്ലൈസുകൾ ഉണ്ട് അതിനാൽ ഒന്നുകിൽ നിങ്ങൾ ആദ്യം ഈ സ്ലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഈ സ്ലൈസ് ആദ്യം ചെയ്യുക പ്രശ്നമല്ല അതിനാൽ ഒന്നുകിൽ നിങ്ങൾ ഇത് ആദ്യം ചെയ്യുക തുടർന്ന് സി അല്ലെങ്കിൽ സി ആദ്യം ചെയ്യുക തുടർന്ന് ഡി പ്രശ്നമല്ല അതിനാൽ തന്നിരിക്കുന്ന ഫ്ലോർ പ്ലാനിന് ഒന്നിൽ കൂടുതൽ സ്ലൈസിംഗ് ട്രീ സാധ്യമാണ് ഇപ്പോൾ ഒരു സ്ലൈസിംഗ് ട്രീ പോളിഷ് എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്ന ഒരു കോംപാക്റ്റ് രീതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയും ഇത് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എന്നും അറിയപ്പെടുന്നു ഇപ്പോൾ പോളിഷ് എക്സ്പ്രഷൻ എന്താണ് നമ്മൾ അത് പിന്നീട് വിശദീകരിക്കും പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് ചുരുക്കമായി പറയാം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു നോഡ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ef ഉള്ളിടത്ത് V എന്ന് പറയട്ടെ പോളിഷ് നൊട്ടേഷനിൽ നമ്മൾ ആദ്യം 2 ലീഫ് ബ്ലോക്കുകൾ എഴുതുകയും തുടർന്ന് റൂട്ട് V എഴുതുകയും ചെയ്യുന്നു എനിക്ക് മറ്റൊന്ന് ഉണ്ടെന്ന് കരുതുക H ഇവിടെ ഇത് ഇവിടെ ബന്ധിപ്പിക്കുന്നു എനിക്ക് ഇവിടെ മറ്റൊരു ബ്ലോക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു പിന്നെ ഞാൻ a മുഴുവൻ എഴുതുന്നു ഈ മുഴുവൻ കാര്യവും ഈ മുഴുവൻ കാര്യത്തെയും പ്രതിനിധീകരിക്കുന്നു എച്ച് ഇതിന് ശേഷം എച്ച് ഒരു പോളിഷ് എക്സ്പ്രഷൻ എഴുതുന്നതിനു പിന്നിലെ അടിസ്ഥാന ആശയമാണ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ട്രീ ഉള്ളപ്പോൾ നിങ്ങൾക്ക് തുല്യമായ പോളിഷ് എക്സ്പ്രഷൻ എഴുതാം ഞാൻ ഇത് നിങ്ങൾക്ക് നന്നായി കാണിച്ചുതരാം VI ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈനിലൂടെ കാണിക്കുന്നു കൂടാതെ HI ഒരു ഹൊറിസോണ്ടൽ ലൈൻ ab ഹൊറിസോണ്ടൽ ലൈൻ ab ഹൊറിസോണ്ടൽ ലൈൻ മറുവശത്ത് ef വെർട്ടിക്കൽ ലൈൻ എന്നിവ കാണിക്കുന്നു നിങ്ങൾ ef തുടർന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ d ഹൊറിസോണ്ടൽ ലൈൻ d ഇത് ഹൊറിസോണ്ടൽ ലൈനിനു ശേഷം c ഈ മുഴുവൻ കാര്യവും ഹൊറിസോണ്ടൽ ലൈനിനുശേഷം c ഈ മുഴുവൻ കാര്യവും ഹൊറിസോണ്ടൽ ലൈനിനു ശേഷം ഇത് മുഴുവൻ ഈ മുഴുവൻ കാര്യം വെർട്ടിക്കൽ ലൈൻ അതിനാൽ ഇത് നമ്മൾ പിന്നീട് വിശദീകരിക്കും എന്നാൽ പോളിഷ് നൊട്ടേഷനിൽ നമുക്ക് ഒരു ലേ ഔട്ട് എങ്ങനെ പ്രകടിപ്പിക്കാം ഇപ്പോൾ ഇവ ഒരു ഫ്ലോർ പ്ലാനിന്റെ ഉദാഹരണമാണ് നിങ്ങൾക്ക് കാണാം ഇവിടെയും നമുക്ക് വളരെ മനോഹരമായി സ്ഥാപിച്ചിട്ടുള്ള ചില ബ്ലോക്കുകൾ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് അവയെ മുറിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നിങ്ങൾക്ക് വിഭജിക്കാൻ കഴിയുന്ന ഒരു തുടർച്ചയായ വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ സ്ലൈസ് ഉണ്ടായിരിക്കില്ല ഈ ഫ്ലോർ പ്ലാൻ ഇതിനെ നോൺ സ്ലൈസബിൾ ഫ്ലോർ പ്ലാൻ എന്നും ഈ ഫാഷനിൽ അധിഷ്ഠിതമായ ഈ 5 ബ്ലോക്കുകൾ ആയുള്ള ടോപ്പോളജി എന്നും വിളിക്കുന്നു ഇതിനെ ഒരു വീൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ഫ്ലോർ പ്ലാനിലെ ഒരു ചക്രത്തെ 5 ചൈൽഡ് നോഡുകളുള്ള ഒരു വെർടെക്സ് പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ പറയുന്നത് പോലെ ഇത് ഈ ഫ്ലോർ പ്ലാനിലെ ഒരു വീലിനെ പ്രതിനിധീകരിക്കുന്നു d c f e g c d e f g അതിനാൽ c d e f g ഒരു വീലിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അതിനെ ഒരു ചക്രം എന്ന് നിർവ്വചിച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുറിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലൈസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലൈസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതും ഇതും സ്ലൈസ് ചെയ്യാം അതിനാൽ നിങ്ങൾക്ക് ഒരു ബി നിങ്ങൾക്ക് ഒരു സ്ലൈസ് വെർറ്റിക്കലായ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു വെർട്ടിക്കൽ സ്ലൈസ് ഒരു ഹൊറിസോണ്ടൽ സ്ലൈസ് എന്നിവ ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായ സ്ലൈസെസും വീലും അടങ്ങിയിരിക്കുന്ന ഒരു കോംപോസിറ്റ് ട്രീ ആണ് ഉള്ളത് അവസാനമായി ഞാൻ ഒരു ഫ്ലോർ പ്ലാനിന്റെ ആന്തർ റെപ്രെസെന്റഷൻ നോക്കും അത് ഒരു ഗ്രാഫ് റെപ്രെസെന്റഷൻ കൂടിയാണ് അതിനാൽ ഇവിടെ ഫ്ലോർ പ്ലാൻ പ്രതിനിധീകരിക്കുന്നത് ഒന്നല്ല രണ്ട് ഗ്രാഫുകൾ ഡിറക്ടഡ് അസൈക്ലിക് ഗ്രാഫുകൾ അർത്ഥമാക്കുന്നത് എഡ്ജുകളിൽ ആരോസ് ഉണ്ടെന്നാണ് അതിനാൽ ഗ്രാഫിൽ ഒന്നിനെ ഹൊറിസോണ്ടൽ പോളാർ ഗ്രാഫ് എന്നും മറ്റേതിനെ വെർട്ടിക്കൽ പോളാർ ഗ്രാഫ് എന്നും വിളിക്കുന്നു ഉദാഹരണത്തിന് ഹൊറിസോണ്ടൽ പോളാർ ഗ്രാഫിന് വെർട്ടെക്സ് ഒരു വെർട്ടക്സ് ഒരു വെർട്ടിക്കൽ ചാനലിനെ പ്രതിനിധീകരിക്കും കൂടാതെ രണ്ട് ചാനലുകൾ ഒരു ബ്ലോക്കിന്റെ രണ്ട് എതിർ വശങ്ങളിലായിരിക്കുമെന്ന് എഡ്ജ് സൂചിപ്പിക്കും ഒരു എഡ്ജ് വെയിറ്റ് ബ്ലോക്കിന്റെ വീതിയെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് വിശദീകരിക്കാൻ ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് ഈ ഉദാഹരണം എടുക്കാം അതിനാൽ ഇത് ഒരു ലേഔട്ട് അല്ലെങ്കിൽ ഫ്ലോർ പ്ലാൻ ആണ് ഇത് ഹൊറിസോണ്ടൽ പോളാർ ഗ്രാഫ് ആണ് തിരശ്ചീന ദിശയിൽ നിങ്ങൾ കാണുന്നത് ഈ വെർടെക്സ് ആണ് വെർട്ടിസ്സ് എന്താണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ ഉള്ള ഓരോ സ്ഥലത്തെയും വെർട്ടിസ്സ് സൂചിപ്പിക്കും ഇവിടെ എനിക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ അടുത്തത് എനിക്ക് ഈ ബ്ലോക്കിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ എനിക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ ഈ ബ്ലോക്കിൽ ഇവിടെ എനിക്ക് ഉണ്ട് വെർട്ടിക്കൽ ലൈൻ ഇവിടെ അവസാനം എനിക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട് അതുപോലെ മറ്റൊരു ദിശയിൽ എനിക്ക് ഒരു വെർട്ടിക്കൽ പോളാർ ഗ്രാഫ് ഉണ്ടാകും അവിടെ ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ നോക്കുന്നു എനിക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ മറ്റൊന്ന് ഈ വെയിറ്റ് പോലെ വെയിറ്റ് പോലെ ഇതും ഇവിടെയും ഒരു എഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ അരികും ഈ അരികും ഒരു ബ്ലോക്ക് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ അരികിന്റെ ഭാരമാകുന്ന ഈ ബ്ലോക്കിന്റെ ഉയരം ഈ നോഡ് കൂടാതെ ഈ നോഡ് ഇത് ഇടയിലുള്ള ബ്ലോക്ക് ആണ് അതിനാൽ ഈ ബ്ലോക്കിന്റെ ഉയരം ഈ അറ്റത്തിന്റെ ഭാരമായിരിക്കും ഇതും ഇതും ഈ ബ്ലോക്കിന്റെ ഉയരം ഇതിന്റെ ഭാരം ആയിരിക്കും അതുപോലെ ഈ ദിശയിൽ ഇതും ഇതും മുഴുവൻ വരിയും അവിടെയുണ്ട് അതിനാൽ ഇത് മുഴുവൻ വീതിയുടെയും ഭാരമായിരിക്കും അതിനാൽ ഈ രണ്ട് ഗ്രാഫുകളും നിങ്ങൾക്ക് ഈ രണ്ട് ഗ്രാഫുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഗ്രാഫുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫ്ലോർ പ്ലാൻ പുനർനിർമ്മിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാവുന്നതാണ് അതിനാൽ പോളാർ ഗ്രാഫ് നിർമ്മിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം കൂടിയാണിത് ഇപ്പോൾ അടുത്തതായി ഫ്ലോർ പ്ലാനിംഗ് യഥാർത്ഥത്തിൽ എങ്ങനെ നടത്താം എന്ന ചില ഫ്ലോർ പ്ലാനിംഗ് അൽഗോരിതങ്ങൾ കാണാം അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ പ്രഭാഷണം 8 അവസാനിപ്പിക്കുന്നു ഇപ്പോൾ അടുത്ത പ്രഭാഷണം നമ്മൾ ഫ്ലോർ പ്ലാനിംഗിനുള്ള അൽഗോരിതങ്ങൾ നോക്കും